ഹേലാ 4പവർøന ജീവശാസ്4തøിൻെറ െമ ാേനാബേയാളജിയുെട ആമുഖ4പഭാഷണøിേല ് എ ാവർ ും സjാഗതം അവസാന ാøിൽ അതിേറാസ് ീേറാസിസ്െന കുറിgാണ് ന ൾ ചർg െചയ്തത് അതിേറാസ് ീേറാസിസിൽ ധമനികളിൽ േg ്സ് അടിുകൂടി അതിൽ കൂടിയുø ര 4പവാഹം കുറ് 4കേമണ ര േയാƒം പൂർമായും നിലg് ഹൃദയാഘാതം സംഭവി ുMു നിÆൾ ് ഞാൻ കാണിgg തMിരുMു എÆെനയാണ് േ ാ െ4പാൈഫൽ ലാമിനാറിൽ നിM് ഡി¶ർേബഡിേല ് മാറുMെതM്േ ാെ4പാൈഫൽ ഡി¶ർേബഡിെ ഭാഗമാെണ ിൽ ഓസിേലറിേയാ ടർബുലൻഡ് ആകും ഡി¶ർേബഡ് േ ാ മൂലമുാകുM ാപ് ടാസ് ആക്ടിേവഷൻ എÆെനയാണു എൻേഡാøീലിയൽ േകാശവര്ധനവിനും ഇൻഫ്ളേമഷനും കാരണമാകുMെതM് ഈ േപçറിൽ വിശദീകരി ുMു് റീഡിങ് അൈസൻെമൻറ്ൻെറ ഭാഗമായി 2016 െല ഈ േപçർ നമു ു് േ ാ ഡിെപൻഡ ് ാപ് ടാസ് 4പവർøനÆൾ എൻേഡാøീലിയൽ ഫിേനാൈടç്ഉം അെതേറാസ്ക്ളിേറാസിസും എÆെനയാണു നിയ4ി ുMെതMു ഈ േപçർ വായി ുMതിലൂെട നിÆൾ ് മനസിലാകും അതിനാൽ ഇM് ഞാൻ മൊരു േരാഗമായ േപശി യെø കുറിgാണ് പറയുMത് മസ് ുലാർ ഡിസ്േ4ടാഫി എMത് ഒരുകൂƒം േരാഗÆെളകുറിg് 4പതിപാദി ുM ഒരു പദമാണ് േപശികൾ ദുർബലമാകുകയും 4കേമണ നഷ്ടമാകുകയും െചgM ഒരുകൂƒം പാര2രç േരാഗÆളാണ് മസ് ുലാർ ഡിസ്േ4ടാഫി പലതരøിലുø മസ് ുലാർ ഡിസ്േ4ടാഫി ഉ് ഇതിേലവും സാധാരണയായി കാണുMത് ഡçøഷൻ മസ് ുലാർ ഡിസ്േ4ടാഫി ആണ് ഈ േരാഗം ബാധി ുMതു ആൺകുƒികെളയാണ് മൂM് വയസിനും നാലു വയസിനും ഇട ുø 4പായøിലാണ് േരാഗം ആരംഭി ുMത് ഡçøഷൻ മസ് ുലാർ ഡിസ്േ4ടാഫിയ ാൾ കുറggകൂടി തീ4വത കുറ അസുഖമാണ് െബ ർ മസ് ുലാർ ഡിസ്േ4ടാഫി ഇതും ബാധി ുMതു ആൺകുƒികെളയാണ് പെ 11 വയസിനും 25 വയസിനും ഇടയിലുøവർ ാണ് േരാഗം വരുMത് അതിനാൽ ഈ േരാഗം കുറggകൂടി 4പായമായതിനു േശഷമാണു 4പകടമാകുMത് മൊരു േപശീ യ േരാഗമാണ് കൺജM്നçടൽ മസ് ുലാർ ഡിസ്േ4ടാഫി േപര് സൂചിçി ുMതുേപാെല ജøനാതെM അെ ിൽ ജനിg ഉടെന തെM ഉാകുM േരാഗമാണിത് ലിംബ് ഗർടിൽ മസ് ുലാർ ഡിസ്േ4ടാഫി സാധാരണയായി 20 വയസുø കൌമാര ാരിൽ ഉാകുMു മനസിലായിേ ഓേ ആൺകുƒികൾ ് ഏകേദശം 10 വയസാകുേ2ാൾ ഉാകുM േരാഗമാണ് എമറി ൈ4ഡഫസ്മസ് ുലാർ ഡിസ്േ4ടാഫി ഇÆെന പലതരøിലുø മസ് ുലാർ ഡിസ്േ4ടാഫി േരാഗÆൾ ഉ് ഈ േരാഗÆൾ ഹൃദയസംബ√മായ േ4പശ്നÆൾ ു കാരണമാകുMു ഇതിൽ ഡçøഷൻ മസ് ുലാർ ഡിസ്േ4ടാഫി ലിംബ് ഗർടിൽ മസ് ുലാർ ഡിസ്േ4ടാഫി എMീ രു േരാഗÆെളകുറിgാണ് ഞാൻ ചർg െചാൻ േപാകുMത് േപശീേകാശøിൻെറ ഘടന വരയ് ുേ2ാൾ ഇതാണ് േകാശസ്തരം എM് സ ൽçി ുക േകാശസ്തരøിനു പുറøായിƒ് നമു ് ഈ വലിയ േകാംgക്സ് കാണാൻ സാധി ും ഇത് ലി ിട് ആണ് സാധാരണ േപശികളിൽ ആക്ിൻ ൈസോസ്േകേലƒെന പുറേø ് ലി ് െചgM ര് െസ് അഡ്ഹഷൻസ് നിÆൾ ് കാണാൻ കഴിയും ഒM് ഇെ4ഗിൻ േബസ്ഡ് േഫാ ൽ അഡ്ഹഷൻസ് ര് ഡിസ്േ4ടാൈøകാൻ േകാെfiക്സ് ഡçøഷൻ മസ്കുലാർ ഡിസ്േ4ടാഫിയിൽ ഡിസ്േ4ടാൈøകാൻ േകാെfiക്സൻെറ ഭാഗമായി ഗാമസാർേ ാൈø ൻ േപാെല ഒMിലധികം മാംസçÆൾ ഉ് ഞാനിവിെട ഗാമാസാർേ ാൈø നും ഡിസ്േ4ടാഫിനുമാണ് എഴുതുMത് ഡçøഷൻ മസ്കുലാർ ഡിസ്േ4ടാഫിയിൽ ഉൽപരിവർøനം കാരണം ഡിസ്േ4ടാഫിൻ േ4പാƒീനുകളgെട എക്സ്4പഷൻ പൂർണമായും നഷ്ടെçടുMു അതിനാൽ ഡിസ്േ4ടാഫിൻ േകാംgക്സ് കാണുMി ലിംബ് ഗർടിൽ മസ് ുലാർ ഡിസ്േ4ടാഫി യിൽ ഗാമാസാർേ ാൈø ൻ േ4പാƒീനും ഉാകുMി ഈ േ4പാƒീനുകളgെട ഫലെøകുറിg് പഠി ാൻ േവി എലികെളയാണ് േമാഡലുകളായി ഉപേയാഗി ുMത് എലികളിെല ഡിസ്േ4ടാഫിൻ ജീനുകൾ എടുøുകളയുMത് മൂലം ഡിസ്േ4ടാഫിൻ േ4പാƒീൻ ഉാകി ഇÆെനയുø എലികെള എം ഡി എക്സ് എലികൾ എM് വിളി ുMു അെ ിൽ ഗാമാസാർേ ാൈø ൻ േ4പാƒീൻ ഇ ാø എലികെള സൃഷ്ടി ുMു സാധാരണ ൈവൽഡ് ൈടപ് േകാശÆളgമായി േ4പാƒീനുകൾ ഇ ാø ഇøരം േകാശÆെള താരതമçെçടുøുേ2ാൾ ഈ േകാശÆൾ ഉയർM േകാശനശീകരണം 4പകടിçി ുMതായി കാണാം ഏകേദശം പøു മുതൽ ഇരുപതു മടÆ് വെര കൂടുതലാണ് േകാശനശീകരണo ഈ 4പവർøനøിെ കാരണം എാെണM് പഠി ാൻ േവി രചയിതാ ൾ ഈ പാേണുകൾ ഉാ ി 2D ഇേമജിൽ നിÆൾ ് അഡ്െഹഷൻ ഐലൻഡ്സിെ ഈ വരകൾ കാണാം ഇത് ECM പൂശിയതാണ് സൂം െചgേ2ാൾ ഇത് ഏകേദശം 20 ൈമേ4കാൺ വീതിയും 100 മുതൽ 1000 ൈമേ4കാൺ നീളവും ഉøതാെണM് മനøിലാകും ഇതിനു പുറേമ ഉø ബാ ിഭാഗം േനാൺ അഡ്െഹസിവ് ആണ് എÆെനയാണ് ഒരു ൈമേ4കാഫാ4ബിേ ഷൻ ഉപേയാഗിggെകാ് ഈ ഘടനകൾ സൃഷ്ടി ുMെതM് പിMീട് വരുM 4പഭാഷണÆളിൽ ഞാൻ നിÆൾ ് കാണിgg തരാം േകാശÆൾ േg് െചgേ2ാൾ േകാശÆൾ െപരുകി ഈ ഘടനകൾ ഉാകുMെതÆെനെയM് മനøിലാ ാൻ ഇത് നിÆെള സഹായി ും മേയാാ¶gകൾ അണിനിരM് െപരുകി ഒരുമിggകൂടി മൾƒി നçø ിേയ്ഡ് മേയാടçøബുകളായി മാറും അÆെന നിÆൾ ് ഇേതേപാെലയുø ഒMിലധികം ഘടനകൾ സൃഷ്ടി ാൻ കഴിയും അÆെന ഈ സബ്സ്േ4ട്സ് ഉപേയാഗിggെകാ് øാøിൽ നിÆൾ ് േബാƒം മേയാടçøബ് ഉാ ാൻ സാധി ും േബാƒം മേയാടçøബ്നു മുകളിൽ േപശീേകാശÆളgെട രാമെø പാളി േചർ ുേ2ാൾ നിÆൾ ് മുകളിൽ മൊരു മേയാടçøബ്കൂടി കിƒgം എMുെവgാൽ നിÆൾ ഒരു േകാശം അതിനു മുകളിൽ മൊരു േകാശം എM രീതിയിലാണ് സൃഷ്ടി ുMത് ഇത് േപശിേകാശÆളgെട മുകളിലെø പാളിയാണ് ഇത് ഒടുവിൽ മേയാടçøബുകൾ ആയി മാറുMു ഇത് താഴെø പാളിയാണ് കാഠിനçøിെയും േപശിേകാശÆളgെട ൈവവിധçവൽ രണøിൻെറയും ഫലെø ുറിg് ഞാൻ മു2് ചർg െചയ്തിരുMു ഈ േകാശÆൾ ഏവും അനുകൂലമായി ഡിഫറൻഷിയg െചgMത് 12 kPa സബ്സ്േ4ടസ്ട്¶ിലാണ് എുെകാെMാൽ øാøിൽ വളർøിെയടു ുM േബാƒം മേയാടçøബ് േകാശÆൾ ഒരി ലും സ്4ടയ് െചgMി പേ മുകളിലെø േകാശÆൾ സ്4ടയ് െചgMു ഈ സ്ൈ4ടഷാനുകെള C57 ൈവൽഡ് ൈടç് എലികളിൽ നിM് േവർതിരിെgടുø C57 ൈവൽഡ് ൈടç്േകാശÆളgമായിƒgം ഗാമസാർേ ാൈø ൻ കുറവുø എലികളിൽ നിM് േവർതിരിെgടുø േകാശÆളgമായിƒgം താരതമçെçടുøുേ2ാൾ ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളgെട മുകളിലെø പാളിയിെല േകാശÆൾ കൂടുതൽ സ്േ4ടഷൻസ് കാണി ുMു സ്േ4ടഷൻസ് േകാൺ4ടാക്ിലിിയുമായി ബ√െçƒിരി ുMുെവM് കാണാം ശരിയേ അതായത് സ്േ4ടഷൻസിൻെറ രൂപീകരണം ഫംഗ്ഷണൽ സാർേകാമിയറുകളgെട രൂപീകരണെø സൂചിçി ുMു ഇതിെന നമു ് റിലാക്േസഷൻ പരീ ണøിൻെറ അടിാനøിൽ വിലയിരുøാം ആശയം വളെര ലളിതമാണ് ഒരു സബ്സ്േ4ട്സ്ൽ നീളമുø മേയാടçøബുകൾ ഉെM് കരുതുക ഇതാണ് നിÆളgെട മർ Æൾ നിÆെളാരു പിç് ഉപേയാഗിg് മേയാടçøബിെ ഒരം േവർെപടുøുMു എM് സ ൽçി ുക ഇÆെന േവർെçടുøുേ2ാൾ േഫാഴ്സ് ബാലൻസ് തടøെçടും തൽഫലമായി മേയാടçøബു റിലാക്സ് െചgMു ഒടുവിൽ മൊരു അവയിേല ് എøുMു ഇതാണ് ആദçെø നീളം ഇത് അിമ നീളവും ഈ നീളെø നിÆൾ ് സമയøിൻെറ 4പവർøനമായി എടു ാം അതിനാൽ L എMത് 't' സമയøിൻെറ 4പവർøനമാണ് ഇനി LL initial എടുøുെകാ് ഒരു േgാƒ് വരgാൽ ഒMിൽ നിM് തുടÆി നിÆൾ ് ഇതുേപാെലയുø ഒരു വ4കം ലഭി ും ൈവൽഡ് ൈടç് ആയ C57 േകാശÆൾ ് അവർ ് കിƒിയത് ഈ കർവ് ആണ് എMാൽ ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆൾ ് കിƒിയ റിലാക്േസഷൻ കർവ് ഇÆെനയിരി ും ഈ അവസാന സാക്ggേറഷൻ േപായിłൽ നിÆൾ ് ഈ കർവുകൾ y1 C 1 e tτ എM എക്സ്4പഷൻ ഉപേയാഗിggെകാ് ഇÆെന ഫി് െച ാൻ സാധി ും അേçാൾ ഇതാണ് നിÆളgെട യഥാർø പരീ ണ േപായിൻറ്കൾ മുകളിൽ െകാടുøിരി ുM എക്സ്4പഷൻ ഉപേയാഗിggെകാ് നിÆൾ ് രു മൂലçÆൾ ബാ ് 4ടാ ് െചാൻ സാധി ും ഒMു C മൊM് േടാ േടാ എMു പറയുMത് റിലാക്േസഷൻെ സമയിരത ആണ് C എMത് സേ ാചøിെ മതിçgമൂലçമാണ് അതിനാൽ t അനമായൽ ഈ വാലçø പൂജçം ആകും 1 ൈമനസ് C ആണ് വാലçø ഒരർøøിൽ സി എMാൽ ൈഫനൽ േറഷിേയാ ടു ദി ഇനിഷçൽ േറഷിേയാ ആണ് നിÆൾ േകാശം എടു ുകയാെണ ിൽ L ൈഫനൽ L ഇനിഷçൽ ആണ് സി േകാശം എ4തമാ4തം സേ ാചി ുMു എMതിെ ഏകേദശ കണ ് സി വാലçø നൽകുMു േകാൺ4ടാക്ിലിി L ൈഫനൽെനകാൾ കുറവാെണ ിൽ അത് L ഇനിഷçലുമായി L initial താരതമçെçടുøിെപടുøുേ2ാൾ നമു ് സി വാലçø െചറുതായിരി ും കിƒgMത് ഇവിെട C57 േകാശÆെള അേപ ിg് ഗാമസാർേ ാൈø ൻ െഡഫിഷçൻസി േകാശÆൾ കൂടുതൽ സേ ാചി ുMവയാണ് േകാശÆൾ കൂടുതൽ േകാൺ4ടാക്ൽ ആെണM് ഈ പരീ ണøിൽ നിM് നമു ് തീർçാ ാം കൾgറിെല േകാശÆെള േനാ ുേ2ാൾ ഇതാണ് ശരി ുø പാേൺ ഇേമജ് അതായത് േകാശÆൾ േg് െചയ്തിരി ുM പാേൺെ രൂപേരഖ ഇതാണ് െസൻ4ടൽ വിട്ø്െM എൻഡ് വിഡ്øുമായി താരതമçെçടുøുേ2ാൾ പല േകാശÆളgം ഇÆെന ഒരു െ4പാൈഫൽ ആണ് തരുMത് ഇÆനെø െ4പാൈഫൽ ഉø പøുശതമാനം േകാശÆൾ ഉെ ിൽ അത് നിയ4ണ േകാശÆളgമായി താരതമçം െചgക ഇേതേപാെലയുø ഫിേനാൈടç് കാണി ുM േകാശÆളgെട ശതമാനം C57 േകാശÆളിൽ എ4ത തെMയായാലും ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളിൽ അത് വളര കൂടുതലാണ് അേçാൾ എാണ് ഇതിനു കാരണം ഒരു കാരണം േകാൺ4ടാക്ിലിി ആണ് േകാൺ4ടാക്ിലിി കൂടുേ2ാൾ േകാശÆൾ വലിയുകയും തൽഫലമായി കൂടുതൽ ബലം ഉാവുകയും അത് േവർെപടുകയും െചgMു സിPലിങ് പാതകളgെട അടിാനøിൽ പറയുകയാെണ ിൽ ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളിൽ എർ ് മാç് ൈകേനസ് പാതയാണ് 4പവർøി ുMത് ഇതാണ് ഗാമസാർേ ാൈø ൻ െഡഫിഷç േകാശÆളിെല ിതി എം ഡി എക്സ് എലികളിൽ വർWിത േകാശനശീകരണം കാണാൻ കഴിയി എം ഡി എക്സ് എലികൾ മസ്കുലർ ഡിസ്േ4ടാഫി എലികളാണ് വർWിത േകാശനശീകരണം അവ 4പകടിçി ുMി എMാൽ ഇെ4ഗിൻ സിPലിങ് പാøേവയുെട അടിാനøിൽ പറാൽ േകാശÆളിലും ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളിലും ഒരു സാമçത ഉ് ഈ രു േകാശÆളിലും ആൽഫാ 7 കൂടുതലാണ് ഇെ4ഗിൻ സിPലിങ് തøാ4തകൾ അ ാø പാക ിലിൻ രു േകാശÆളിലും വർWിgg പേ പാക ിലിൻ കുറggകൂടി കൂടുതലായി കാണുMത് എം ഡി എക്സ് എലികളിലാണ് പാക ിലിന് രു േഫാസ്േഫാറിേലഷൻ ൈസgകളg് ഒM്ൈടേറാസിൻ 118 ഉം ര് ൈടേറാസിൻ 31ഉം ഇതു രും എം ഡി എക്സ് എലികളിൽ കൂടുതലാണ് എം ഡി എക്സ് എലികളിൽ പാക ിലിൻ സിPലിങ് വർധിgതായിƒാണ് േഫാസ്േഫാർ സ്4കീൻ കാണി ുMത് അേçാൾ ഈ േകാശÆളിൽ എാണ് പാക ിലിൻ തøാ4തകൾ െചgMത് എം ഡി എക്സ് എലികളിൽ നിMുø േകാശÆളിെല േഫാ ൽ അഡ്െഹഷനിൽ കാണുM പാക േഫാസ്േഫാറിേലഡ് ആണ് ിലിൻ Y31 ഉം Y118 ഉം േഫാസ്േഫാറിേലഡ് ആെണM് നിÆൾ എഴുതിയിƒg് ഇതിൽ ഏവും 4പധാനം േലാ ൈലേസഷൻ േകാ4ാക്്റിലിിേയാട് 4പതികരി ുMു എMതാണ് അതിനാൽ മേയാസീൻ 2െ ഇൻഹിബിർ ആയ 2് ഉപേയാഗിg് ചികിിgാൽ െപെƒM് തെM ഡിേലാ ൈലേസഷൻ നട ും അതായത് പാക ിലിൻ േഫാ ൽ അഡ്െഹഷനുകളിൽ നിM് ഡിേലാ ൈലസ് െചgMു 2് മാിയാൽ പാക ിലിൻ േഫാ ൽ അഡ്െഹഷനുകളിേല ് വീും തിരിggവരും അതിനാൽ േഫാ ൽ അഡ്െഹഷനുകളgെട ഈ േടൺ ഓവർ 4ഫാç് പരീ ണÆൾ അെ ിൽ േഫാേƒാ ീgിÆിനു േശഷമുø øറെസൻറ് റി വറി ഉപേയാഗിg് വിലയിരുøാം നിÆൾ എാണ് െചേ ത് എM് െവgാൽ ജി എഫ് പി പാക ിലിൻ 4ടാൻസ്െഫക്ഡ് ആയിƒgø ഒരു േകാശം എടു ുക ഇതിൽ ജി എഫ് പി പാക്സിലിൻ അഡ്െഹഷനുകൾ ഉ് നിÆൾ ഒരു െചറിയ അഡ്െഹഷനിൽ 4ശW േക4mീകരി ുക 4പകാശo ഈ അഡ്െഹഷനിേല ് അടി ുേ2ാൾ അത് േലാ ലി ീgിട് ആവും ഫംഗ്ഷൻ ഓഫ് ൈടം എടു ുേ2ാൾ ഈ േപായിłെല തീ4വത എ4തയാെണM് 4ടാ ്െചgക തീ4വത േgാƒ് െചgകയാെണ ിൽ നിÆൾ ് ഇേതേപാെലാരു കർവ് ലഭി ും ഇതിൽ നിM് വീെടു ൽ ശതമാനം എ4തയാെണM് ബാ ്4ടാ ് െചാൻ സാധി ും ഉദാഹരണøിന് പൂർമായും ചലി ുM ഒരു േ4പാƒീൻ ഉെ ിൽ േഫാേƒാീgിന്േശഷം അത് താേഴ ് വരും അതായത് അേത വാലçgവിേല ് വരും പേ േഫാ ൽ അഡ്െഹഷനുകളിൽ ഇത് േകാശ4ദവçøിൽ ഡിഫçøസ് െചയ്ത് കാണുMു നിÆൾ വീെടു ൽ സമയം 4ടാ ് െചgകയാെണ ിൽ ൈസോേസാളിെന അേപ ിg് റി വറി സമയം േഫാ ൽ അഡ്െഹഷനുകളിൽ കൂടുതലാണ് മിഷ് ¶ാിൻ ഉപേയാഗിg് 4ടീ് െചgകയാെണ ിൽ റി വറി സമയം കുറയുMതായി കാണാം അതിനാൽ മിഷ് ¶ാിൻ കുറയുMു ഇത് ൈസോേസാളിൽ ആണ് നട ുMത് േഫാ ൽ അഡ്െഹഷനുകളിൽ പാക്സിലിൻ മg േ4പാƒീനുകളgമായി 4പതി4പവർøി ുMതായി മനøിലാ ാം ഇനി എവിെടയാണ് പാക്സിലിൻ അമിതമായി 4പകടമാകുMത് എM് േനാ ാം േകാശøിനു പുറø് സ്ൈ4ടഷൻ ശതമാനം കൂടുതലാണ് എ4ത മേയാടçøബുകൾ സ്4ടയ്ഡ് ആയി എMറിയാൻ േകാശവും േകാശ ജാമിതിയും ഉപേയാഗി ുMു എം ഡി എക്സ് എലികളിൽ പാക്സിലിൻ കൂടുതലാണ് ഒരു ഘƒøിൽ പാക്സിലിൻ േലാ ൈലേസഷൻ േകാൺ4ടാക്ൈടലിി ് സംേവദന മമാെണM് കാണാം ഒരു ൈവൽഡ് ൈടç് േകാശøിൽ പാക്സിലിൻ ഓവർ എക്സ്4പസ് െചയ്താൽ അത് മേയാൈഫ4ബിേലാജനസിസ് വർWി ുMതിന് കാരണമാകുMു ഈ പരീ ണÆൾ നിർേÇശി ുMത് എാെണMു െവgാൽ പാക്സിലിനും േകാൺ4ടാക്ൈടലിിയും അെ ിൽ ര ാതിമർÇവും ത ിൽ ബ√മുെMാണ് അതിനാൽ ഞാൻ നിർേÇശിg റിലാക്േസഷൻ പരീ ണÆൾ ഉപേയാഗിg് നിÆൾ ിത് വിലയിരുøാൻ ആകും േനാ ൂ പാക്സിലിൻ ഓവർ എക്സ്4പസ് െചgേ2ാൾ നിയ4ിത േകാശÆൾ ് കിƒgM കർവ് ആണിത് LL limit ആണ് സമയം കുെറ സമയേø ് േകാശÆൾ റിലാക്സ് െചgMതിനാൽ നിÆൾ ിത് 4ടാ ് െചാം ഇനി േകാശÆൾ ബി¶ാിൻ െവg് 4ടീ്െചgേ2ാൾ ബി¶ാിൻ േകാൺ4ടാക്ിലിി തടയും എുെകാെMാൽ ബി¶ാിൻ എ ാ സേ ാചവും കുറയ് ുMു ബി¶ാിനുമായി നിയ4ിത േകാശÆൾ താരതമçെçടുøുേ2ാൾ എ4തമാ4തം വçതçാസം അതിൻെറ നീളøിൽ ഉാകുMു എM് നിÆൾ ് 4ടാ ് െചാം പാക്സിലിൻ റിലാക്േസഷൻ സമയം കൂƒgMുെവM് ന ൾ ് കാണാം അതിനാൽ പാക്സിലിൻ 4ടാൻസ്െഫക്ഡ് േകാശÆൾ ൈഹçർ േകാൺ4ടാക്ൈടൽ ആണ് അോമിക് േഫാഴ്സ് ൈമേ4കാസ്േകാçി ഉപേയാഗിg് ഇത് പേരാ മായി കണ ാ ാം േകാശÆളgെട െമ ാനി ൽ േ4പാçർƒി പരിേശാധി ാൻ എ എഫ് എം എÆെന ഉപേയാഗി ാം എMതിെന കുറിg് പിMീട് വിശദമായ ചർg നിÆൾ ് ലഭി ും ¶ിഫനസ് 4ടാ ് െചgേ2ാൾ പാക്സിലിൻ ഓവർ എക്സ്4പസ് ആയിƒgø നിയ4ിത േകാശÆളിൽ കർവ് വലതുവശേø ് തിരിയുMത് ആയി കാണാം എM് െവgാൽ േകാശÆൾ കൂടുതൽ ¶ീഫ് ആകുMു ബ്4ടിഡ് േകാശÆളിൽ ഇÆെനയാണ് ഇതാണ് ബ് ഇത്കൺേ4ടാൾ ഇത് പാക്സിലിൻ ഓവർ എക്സ്4പø് േകാശÆൾ ഇത് സൂചിçി ുMത് പാക്സിലിൻ േകാശÆൾ ൈഹçർ േകാൺ4ടാക്ൈടലും ¶ിഫറും ആണ് ഈ പരീ ണÆെള ാം പാക്സിലിൻ 4ടാൻസ്െഫക്ഡ് ആയിƒgø C57 േകാശÆളിലാണ് നടøിയത് ഇേത പരീ ണÆൾ C57 േകാശÆളിലും എം ഡി എക്സ് േകാശÆളിലും നടøിയേçാൾ എം ഡി എക്സ് േകാശÆൾ കൂടുതൽ സേ ാചം ഉøവയായിരുMു എMാൽ ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆേള ാൾ സേ ാചം കുറവായിരുMു േകാൺ4ടാക്ിലിിയുെട അടിാനøിൽ പറാൽ ഏവും കൂടുതൽ ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆൾ ും അതിേന ാൾ കുറവ് എം ഡി എക്സ് േകാശÆൾ ും അതിലും കുറവ് േകാൺ4ടാക്ിലിി C57 േകാശÆൾ ും ആണ് C 57 അേçാç്ോƒി ് ആണ് എം ഡി എക്സ്േകാശÆൾ അേçാç്ോƒി ് അ C 57 േകാശÆളgെട ശരാശരി കാഠിനçം 12 kPa ആണ് ഇത് സാധാരണ േപശികൾ ് സമാനമാണ് എം ഡി എക്സ് േപശികളിൽ ¶ിഫനസ് 1 5 മടÆ് കൂടുതലാണ് അതായത് 18 kPa മുൻപെø േപാെല പാക്സിലിൻ ഓവർ എക്സ്4പഷൻ കാണി ുM എം ഡി എക്സ്േകാശÆൾ കൂടുതൽ േകാൺ4ടാക്ൈടലും ¶ിഫറും ആണ് അതിനാൽ ഇതിൻെറ അർøം എാണ് ിനി ുകളിൽ എം ഡി എക്സ് േരാഗികൾ ് സാധാരണ 4പിഡാനിസലൂൺ എM മരുMാണ് നൽകുMത് 4പിഡാനിസലൂൺ ഒരു øøേ ാേകാർƒിേകായിട് ആണ് ഇെതാരു സjാന മരുM് ആയിƒാണ് ഉപേയാഗി ുMത് പേ ഇത് എÆെനയാണ് 4പവർøി ുMത് എM് അറിയി നിയ4ിത േകാശÆെള പി ഡി എൻ 4പിഡാനിസലൂൺ ഉപേയാഗിg് 4ടീ് െചയ്തേçാൾ േകാശÆൾ മൃദുവായി മാറി ഈ മരുM് െടൻഷൻ െലവൽ കുറയ് ുMു എം ഡി എക്സ് േകാശÆളിലും ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളിലും ഡിസ്േ4ടാൈøകാൻ േകാെfiക്സ് അസjമാകുകയും ഈ േകാശÆളിെല േകാൺ4ടാക്ിലിി കൂടുകയും െചgMു എം ഡി എക്സ് േകാശÆളിൽ ഇത് അേçാç്ോസിനും കാരണമാകുMു 4പിഡാനിസലൂൺ ഉപേയാഗി ുേ2ാൾ ഈ േകാൺ4ടാക്ിലിി കുറയുMു േകാശÆൾ മൃദുവാകുMു ഗാമസാർേ ാൈø ൻ െഡഫിഷç ് േകാശÆളിലും എം ഡി എക്സ്േകാശÆളിലും േകാശÆൾ കടുçം ഉøതാകുMു ഇതിനു കാരണം ഇൻ4ഗീൻ സിPലിംഗ് കൂടുMതാണ് പേ 4പശ്നം എാെണM് െവgാൽ ഇൻ4ഗീൻ സിPലിംഗ് േകാൺ4ടാക്ിലിി Integrin signalling contractility കൂƒgMത് വഴി ര ാതിമർÇവും കൂƒgMു ഇൻ4ഗീൻ ഡിസ്േ4ടാൈø െ 4പഭാവം നികøും എ ിലും ഇൻ4ഗീൻെയും ഇൻ4ഗീൻ സിPലിംെയും ഓവർ എക്സ്4പഷൻ ര ാതിമർÇ øിേല ് hypertension നയി ുMു വായന അൈസൻെമൻറ്ൻെറ ഭാഗമായി ഇM് ഞാൻ ഇവിെട നിർøുMു ഞാൻ നിÆൾ ് രു േപçറുകൾ നൽകുMു ഒM് 4ഗിഫിൻ ഏ് ഓൾ േജണൽ ഓഫ് െസൽ സയൻസ് 2005 Griffin et al Journal of Cell Science 2005 മൊM് െസൻ ഏ് ഓൾ യൂേറാപçൻ േജർണൽ ഓഫ് െസൽ ബേയാളജി 2011 Sen etal European Journal of Cell Biology 2011